മറ്റൊരു പ്രശ്നത്തിലേക്ക് മടങ്ങുക അപ്പോൾ ആ RL സർക്യൂട്ട് എന്താണെന്ന് നമുക്ക് കാണാം അതിനാൽ ചിത്രം 5 1 ൽ സ്വിച്ച് വളരെ നേരമായി അടച്ചിരിക്കുകയാണ് അത് t 0 ൽ തുറന്നിരിക്കുന്നു നിങ്ങൾ എല്ലാ സമയത്തും i v എന്നിവ നിർണ്ണയിക്കണം അതിനാൽ വളരെക്കാലമായി സ്വിച്ച് അടച്ചിരിക്കുകയാണെന്നും അതിനർത്ഥം ഈ സ്വിച്ച് വളരെക്കാലം ക്ലോസ്ഡ് ആണ് t 0 ൽ ഈ സ്വിച്ച് തുറന്നു ഇപ്പോൾ ചോദ്യം ഇതാണ് ഈ 100 വോൾട്ട് ഉറവിടം ഒന്നുണ്ട് എന്നാൽ ഇവിടെ ഒരു സ്റ്റെപ്പ് ഇൻപുട്ടും ഉണ്ട് അത് 15 u വോൾട്ട് ആണ് അതിനെ ജനറൽ ആയി എഴുതാം 15 u 0 when t0 15 u 15 when t 0 അതിനർത്ഥം u 0 when t0 u 1 when t 0 അതിനാൽ അതുകൊണ്ടാണ് ഈ 15 u 0 t 0 അതാണ് നിങ്ങൾ പാസ്ററ് ഹിസ്റ്ററി എന്ന് വിളിക്കുന്നത് അതിനർത്ഥം ഈ സ്വിച്ച് വളരെക്കാലം അടച്ചിരുന്നു എന്നാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ t 0എന്താണ് സംഭവിക്കുന്നത് 15 u 0 when t0 15 u 15 when t 0 ഇതിനർത്ഥം സ്വിച്ച് വളരെക്കാലം അടച്ചിരുന്നു അതിനർത്ഥം ഇത് 15 u വോൾട്ടേജ് ഉറവിടം യഥാർത്ഥത്തിൽ ഇത് 0 ആയിത്തീരുന്നു അതായത് ഇത് ഇങ്ങനെ ആയിരിക്കും അതിനാൽഇത് തമ്മിൽ ചേർക്കുക കാരണം ഇത് യഥാർത്ഥത്തിൽ 0 ആണ് കാരണം സ്വിച്ച് ദീർഘനേരം അടച്ചിരുന്നു അതിനാൽ വളരെക്കാലമായി സ്വിച്ച് അടച്ചിരുന്നതിനാൽ ഇതിനും ഈ 100 വോൾട്ട് ഡിസി ഉറവിടവും ഉണ്ട് ഇത് അടച്ചിരിക്കുന്നതിനാൽ അതായത് ഈ കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കും അതിനാൽ ഇതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതായത് വളരെക്കാലം സ്വിച്ച് അടച്ചിരുന്നു അതായത് V Vc V 100 വോൾട്ട് അതിനാൽ ഇതാണ് Vc അതേ സമയം ഈ 10 Ω 20 Ω എന്നീ റെസിസ്റ്റർ സമാന്തരമായി വരുന്നു കാരണം ഈ വോൾട്ടേജ് 0 ആണ് കാരണം ഇത് ഷോർട് ആണ് ഞാൻ ഉദ്ദേശിച്ചത് വിശദീകരണത്തിന് വേണ്ടിയാണ് അതിനാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും കാരണം ഇത് ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കും അതിനാൽ ഇക്വിവാലെന്റ സർക്യൂട്ട് കാണിച്ചിരിക്കുന്നു ഞാൻ അത് ഇവിടെ വരച്ചു ഞാൻ പറഞ്ഞതെല്ലാം ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു ഇത് 15 ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ സർക്യൂട്ട് ഇങ്ങനെയാകും അതിനാൽ ഇതാണ് കപ്പാസിറ്റർ അവിടെ ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയി പ്രവർത്തിക്കും ഇത് i ആണ് ഇത് 10 Ω ഉം 20 Ω ഉം സമാന്തരമാണ് ഇത് 100 വോൾട്ട് ആണ് അതിനാൽ V0 100 വോൾട്ടും i v10 അതായത് 10 ആമ്പിയർ നിങ്ങൾ i കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ദിശ ഈ രീതിയിൽ എടുക്കുന്നു അതിനാൽ ഇതാണ് വോൾട്ടേജ് ഈ വോൾട്ടേജും എന്ന് പറഞ്ഞാൽ ഇതാണ് വോൾട്ടേജ് v അതിനാൽ ഇത് ഇത് അതിനാൽ അടിസ്ഥാനപരമായി എന്താണ് സംഭവിക്കുക 10 i ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ 10 i v 0 അതിനാൽ i v10 10010 10 ആമ്പിയർ അതിനാൽ ഈ സാഹചര്യത്തിൽ അതുകൊണ്ടാണ് i v10 നൽകുന്നത് അത് 10 ആമ്പിയർ കപ്പാസിറ്റർ വോൾട്ടേജിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് t 0 ൽ സ്വിച്ച് തുറക്കുമ്പോൾ നിങ്ങൾ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽകപ്പാസിറ്റർ വോൾട്ട് അതായത് സ്വിച്ച് തുറന്നാലുടൻ ഈ വോൾട്ടേജ് ഉറവിടം ഉണ്ടാകരുത് കാരണം അത് വിച്ഛേദിക്കപ്പെട്ടു അത് t 0 ൽ തുറന്നിരിക്കുന്നു അതിനാൽ ടി 0 ന് ഈ 15 വോൾട്ട് സ്റ്റെപ്പ് ഇൻപുട്ട് ഉണ്ടായിരിക്കും അവസാനം കപ്പാസിറ്റർ വോൾട്ടേജ് തൽക്ഷണം മാറ്റാൻ കഴിയില്ല അതിനാൽ ആ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക V V0 അത് 100 വോൾട്ട് ആയിരിക്കും അതിനാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ 15 വോൾട്ട് ഉറവിടമുണ്ട് ഇത് 10 i ആണ് ഇത് v 14 ഫാരഡ് ആണ് ഇപ്പോൾ വളരെക്കാലത്തിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽകപ്പാസിറ്റർ വോൾട്ടേജ് തൽക്ഷണം മാറ്റാൻ കഴിയാത്തതിനാൽ V V 100 വോൾട്ട് t 0 ന് സ്വിച്ച് തുറന്നിരിക്കുന്നു 10 വോൾട്ട് ഉറവിടം സർക്യൂട്ടിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും അപ്പോൾ ഈ 15 u വോൾട്ട് ഉറവിടം ഇപ്പോൾ സർക്യൂട്ടിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് അവസ്ഥയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് V∞ സ്റ്റഡി സ്റ്റേറ്റ് അവസ്ഥയിൽ ഈ കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ട് ആയി പ്രവർത്തിക്കുമെന്ന് കരുതുക അതിനർത്ഥം സർക്യൂട്ട് ഇതുപോലെയായിരിക്കും ഇത് 15 വോൾട്ട് ആണ് ഇത് 10 i ഇത് 20 Ω ആണ് ഈ കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റ് അവസ്ഥയിൽ ഒരു ഓപ്പൺ സർക്യൂട്ട് ആയി പ്രവർത്തിക്കുന്നു അതിനാൽ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും ഈ Vss യഥാർത്ഥത്തിൽ V V∞ ആണ് v സ്റ്റഡി സ്റ്റേറ്റ്ലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ ഇത് 10 Ω ആണ് ഇത് 20 Ω ആണ് അതിനാൽ നിലവിലെ i എന്താണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും ഇത് നൽകിയിരിക്കുന്നത് ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ i 15 20 10 0 5 ആമ്പിയർ അതായത് i പിന്നെ എന്താണ് V∞ V∞ എന്നത് ഒരു സ്റ്റഡി സ്റ്റേറ്റ് മൂല്യം ആയിരിക്കും ഇത് ഓപ്പൺ സർക്യൂട്ട് i 20 A ഒഴുകുന്നു അതിനാൽ V∞ ½ 2010 വോൾട്ട് അതിനാൽ V∞ 10 വോൾട്ട് ആണ് ഈ സർക്യൂട്ട് നിങ്ങൾക്കായി വരച്ചതാണ് ഈ സാഹചര്യത്തിൽ ഇത് V∞ 10 വോൾട്ട് ആണ് ഇപ്പോൾ ഞങ്ങൾ RThevenin കണ്ടെത്തും അതിനാൽ RThevenin എന്നാൽ തെവെനിൻ ലഭിക്കുന്നതിന് ഞാൻ സർക്യൂട്ട് കാണിച്ചുതന്നു ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ആ സമയത്ത് നിങ്ങൾ ഇത് ഷോർട് ചെയ്യണം അതിനാൽ 10 Ω ഉം 20 Ω ഉം സമാന്തരമാണ് കാരണം നമുക്ക് ഇത് ഷോർട് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ RThevenin 10 2010 20 20030 203 ആയിരിക്കും അതാണ് RThevenin ടൈം കോൺസ്റ്റന്റ് τ C RThevenin ആയിരിക്കും അതിനാൽ C 14 ഫാരഡ് നൽകിയിരിക്കുന്നു അതിനാൽ ഇത് 14 203 53 സെക്കൻഡ് ഇതാണ് τ ഈ സാഹചര്യത്തിൽ ഇത് τ 53 സെക്കന്റും RThevenin 203 ഉം ആണ് ഇപ്പോൾഈ ഫോർമുല അറിയുക V V∞ V V∞e t V 10 e 3t5 1090e 3t5 volt ഇപ്പോൾ ചിത്രം 6 53 ൽ നിന്ന് ഈ വോൾട്ടേജ് v മറ്റൊരു ഘടകവും അവിടെയില്ല അതിനാൽ അതേ വോൾട്ടേജ് 20 Ω പ്രതിരോധത്തിലുടനീളം ഉണ്ടാകും അതിനാൽ ഈ കറന്റ് ഇത് i 1 ആണെന്നും ഈ കപ്പാസിറ്ററിലൂടെകറന്റ് i c പിന്നെ i 1 v20 ഇത് i 1 i c C d vd t ആയിരിക്കും അതിനർത്ഥം i v20 c d vd t അതിൽ നിന്ന് മാത്രമാണ് i v20 c d vd t എന്ന സമവാക്യം എഴുതുന്നത് ഇവിടെ ഇത് V ആണ് ഞാൻ എപ്പോഴും t എഴുതുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് vt എന്ന് എഴുതാം പക്ഷേ ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനാൽ vt യുടെ എക്സ്പ്രഷൻ സ്ഥാപിക്കുക ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക അതിനാൽ ഇത് രണ്ടാമത്തെ പദമാണ് C 14 d vd t അതിനാൽ ഈ സാഹചര്യത്തിൽ ലഘൂകരിച്ചതിന് ശേഷം i ½ 92 e 3t5 272 e 3t5 ½ 9 e 3t5Amp ഈ v 10 i 15 തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ ഈ സർക്യൂട്ടിലേക്ക് പോയാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് KVLകെവിഎൽ പ്രയോഗിക്കണമെന്നാണ് അതിനാൽ ഈ വോൾട്ടേജ് v എന്നാൽ ഞാൻ ഇത് ഇതുപോലെയാക്കുകയാണെങ്കിൽ ഈ വോൾട്ടേജ് v എന്നാൽ അത് 10 i v 15 0 അതായത് 10 i v 15 നിങ്ങൾ പരിശോധിക്കുക അത് തൃപ്തിപ്പെടും അതിനാൽ V 100 volt t0 V 10 90 e 3t5volt t0 i 10 Amp t0 i ½ 9 e 3t5Amp t0 ഇപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കാര്യങ്ങൾ ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ പൂർണ്ണമായ പ്രതികരണം നോക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം രണ്ട് ഘടകങ്ങളായി ഇതിനെ വിഭജിക്കുക എന്നതാണ് ഒന്ന് നാച്ചുറൽ റെസ്പോൺസ് മറ്റൊന്ന് ഫോർസ്ഡ് റെസ്പോൺസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രതികരണത്തിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സ്വാഭാവിക പ്രതികരണവും മറ്റൊന്ന് നിർബന്ധിത പ്രതികരണവുമാണ് അതിനാൽ പൂർണ്ണമായ പ്രതികരണം എഴുതാനും കഴിയും അതിനാൽ സമ്പൂർണ്ണ പ്രതികരണം നാച്ചുറൽ റെസ്പോൺസ് അതായത് സംഭരിച്ചഊർജ്ജം അതായത് ഉറവിടം ഫോർസ്ഡ് റെസ്പോൺസ് സ്വതന്ത്ര ഉറവിടം വോൾട്ടേജ് ഉറവിടമോ കറന്റ് ഉറവിടമോ സ്വതന്ത്ര സ്രോതസ്സോ ആകാം That means v natural response vn forced response vf this is the equation 59 അതായത് v നാച്ചുറൽ റെസ്പോൺസ് vn ഫോർസ്ഡ് റെസ്പോൺസ് vf ഇതാണ് സമവാക്യം 59 സമവാക്യം 40അനുസരിച്ച അതിനാൽ സമവാക്യം 48 ൽ നിന്ന്V Vs e tτ V Vs e tτ ഇതാണ് സമവാക്യം 48 ഇത് ശരിക്കും V∞ V0 V∞e tτ ആണ് അതിനർത്ഥം ആദ്യ പദം Vn V0 e tτ അത് സോഴ്സ് ഫ്രീ സർക്യൂറ്റിനുള്ള നാച്ചുറൽ റെസ്പോൺസ് ആണ് സോഴ്സ് ഫ്രീ സർക്യൂട്ടിനായി ഫോർസ്ഡ് റെസ്പോൺസ് അത് എക്സ്റ്റർനാൽ ഫോഴ്സ് മൂലം ആണ് അത് വോൾടേജ് സോഴ്സ് ആണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ vn ആണ് ഇത് Vs ആണ് v0 e tτ നാച്ചുറൽ റെസ്പോൺസ് e tτ ഫോർസ്ഡ് റെസ്പോൺസ് ആണ് അതിനാൽ ഈ രീതിയിൽ ഈ സമവാക്യം 48 ഇങ്ങനെ എഴുതാം അതിനാൽ ഇത് 59 60 61 62 എന്നീ സമവാക്യങ്ങളാണ് അതിനാൽ നാച്ചുറൽ റെസ്പോൺസ് Vn ഇതിനകം തന്നെ വിഭാഗം 6 2 ൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനാൽ Vf ഫോർസ്ഡ് റെസ്പോൺസ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഒരു ബാഹ്യശക്തി പ്രയോഗിക്കുമ്പോൾ സർക്യൂട്ട് പ്രതികരിക്കുന്നു അത് ഇവിടെ ഒരു വോൾട്ടേജ് ഉറവിടമാണ് ഇപ്പോൾ സമാന്തര ആർസി സർക്യൂട്ടിന്റെ കറന്റ്ന്റെ പ്രതികരണം കാണാം അതിനാൽ ഇപ്പോൾ സർക്യൂട്ട് ഒരു സമാന്തര ആർസി സർക്യൂട്ട് ആണെന്ന് പരിഗണിക്കുക എന്നാൽ കറന്റ് സോഴ്സ് അവിടെയുണ്ട് അതിനാൽ ഈ സന്ദർഭത്തിലും ഇത് i u ആണ് നൽകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ u 0 t 0 ന് ഇത് u 1 t 1 അതിനാൽ എന്റെ i u 0 എന്നത് t 0 i u i t 0 ആകയാൽ സ്റ്റെപ്പ് ഇൻപുട്ടും ആണ് ഇത് ഒരു സമാന്തര R C സർക്യൂട്ടുമാണ് t 0 ആയിരിക്കുമ്പോൾ അതിനാൽ i u t I കാരണം u 1 അതിനാൽ ഈ സാഹചര്യത്തിൽ u ഇല്ലെങ്കിൽ t 0 ൽ അത് i ആണ് സ്റ്റഡി സ്റ്റേറ്റ് അവസ്ഥയിലാണെങ്കിൽ ഇത് ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കും അതായത് ഈ കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് സ്റ്റഡി സ്റ്റേറ്റ് പ്രതികരണമാണ് അല്ലെങ്കിൽ അത് VC∞ ആണ് അതിനാൽ ആ സാഹചര്യത്തിൽ Vss VC∞ ആയിരിക്കും ഈ I കറന്റ് ഇങ്ങനെ ഒഴുകും അതിനാൽ അത് I R ആയിരിക്കും ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇതിനെ അടിസ്ഥാനമാക്കി τ സമയ സ്ഥിരാങ്കം C R അതിനാൽ ഈ സ്വാഭാവിക പ്രതികരണവും നിർബന്ധിത പ്രതികരണവും ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും വോൾട്ടേജിന്റെയോ വൈദ്യുതപ്രവാഹത്തിന്റെയോ ആവിഷ്കാരം നേടാൻ ശ്രമിക്കും അതുകൊണ്ട് തുടക്കത്തിൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തുടക്കത്തിൽ കപ്പാസിറ്ററിന്റെ പ്രാരംഭ വോൾട്ടേജ് V c V0 അനുമാനിക്കുന്നത് അത് 0 ആയിരിക്കാം പക്ഷേ V c V0 എന്ന് ഞാൻ അനുമാനിക്കുന്നു സ്റ്റഡി സ്റ്റേറ്റിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു Vc ∞ I R അതിനാൽ 6 48 സമവാക്യത്തിൽ നിന്ന് Vc Vc ∞ Vc Vc ∞e tτ Vc IR e tτ Vc V0e tτ IR1 e tτ ഇത് സമവാക്യം 63 ആണ് അതിനാൽ Vn V0e tτ എന്നത് സ്വാഭാവിക പ്രതികരണമാണ് ഒരു ഉറവിട ഫ്രീ സർക്യൂട്ടിന്റേതു പോലെ Vf നിർബന്ധിത പ്രതികരണവും അതാണ് IR1 e tτ കറന്റ് സോഴ്സ് സ്റ്റെപ്പ് ഇൻപുട്ടും ആയിട്ടുള്ള ലളിതമായ സമാന്തര R C സർക്യൂട്ട് ആണ് ഇത് ഇപ്പോൾ അടുത്തത് ഒരു R L സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് പ്രതികരണമാണ് അതിനാൽ ഇതാണ് സർക്യൂട്ട് അടുത്തത് ഒരു R L സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് പ്രതികരണ0 നോക്കാം ഈ സാഹചര്യത്തിൽ ചിത്രം 55 ആർ എൽ സർക്യൂട്ട് കാണിക്കുന്നു ചിത്രം 56 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് ഉപയോഗിച്ച് ഇതിനെ മാറ്റിസ്ഥാപിക്കാം അതിനാൽ ഇത് ആർ എൽ സർക്യൂട്ട് ആണ് t 0 ആണെന്ന് കരുതുക അപ്പോൾ സ്വിച്ച് അടച്ചിരിക്കുന്നു അതിനാൽ ഇത് ഒരു ലളിതമായ RL സർക്യൂട്ട് ആണ് ഇത് L ഉം L ൽ ഉടനീളം ഉള്ള വോൾട്ടേജും vt ഉം ധ്രുവീയതയും അടയാളപ്പെടുത്തിയിരിക്കുന്നു ഈ കറന്റ് i ഒഴുകുന്നു ഇപ്പോൾ പൊതുവേ സ്വിച്ച് അടയ്ക്കുമ്പോൾ സ്വിച്ച് ഇതുപോലെയായിരിക്കും സ്റ്റഡി സ്റ്റേറ്റിൽ ഈ ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കുന്നു ഒരു സ്റ്റേഡി സ്റ്റേറ്റിൽ ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയി പ്രവർത്തിക്കുന്നു ഇത് കറന്റ് i ആണെങ്കിൽ നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റിൽ i ∞ VsR ആയിരിക്കും t 0 ഇൽ സ്വിച്ച് അടച്ചതിനുശേഷം ആയിരിക്കും അത് ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കുന്നു കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റിൽ ഓപ്പൺ സർക്യൂട്ട് ആയി പ്രവർത്തിക്കുന്നു അതിനാൽ ഈ സർക്യൂട്ട് ഇതുപോലെ വീണ്ടും വരയ്ക്കാം ഇത് V സ്റ്റെപ്പ് ഇൻപുട്ട് Vs u ഉം R ഉം ആയിരിക്കും ഇത് L മുമ്പുള്ളതിന് സമാനമായി Vs u 0 t 0 and Vs u Vs t0 അതിനാലാണ് ഇത് Vs u എന്ന് എഴുതിയിരിക്കുന്നത് അതിനാൽ ഇൻഡക്ടർ കറന്റ് i കണ്ടെത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ് ഇൻഡക്ടർ കറന്റ് i സർക്യൂട്ട് പ്രതികരണമെന്ന നിലയിൽ 59 മുതൽ 62 വരെയുള്ള സമവാക്യം ഉപയോഗിക്കും അതാണ് 59 മുതൽ 62 വരെയുള്ള സമവാക്യം അതായത് ഈ സമവാക്യത്തെ നിങ്ങൾ വിളിക്കുന്ന ഈ സമവാക്യം 59 60 61 62 മുതൽ നിങ്ങൾ ഈ v vn vf ഉപയോഗിക്കുന്നു അതുപോലെ i in i f അതേ ആശയ൦ ഉപയോഗിച്ച് എഴുതാം അതിനാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ i in i f in എന്നത് വൈദ്യുതധാരയുടെ സ്വാഭാവിക പ്രതികരണമാണ് if എന്നത് വൈദ്യുതധാരയുടെ നിർബന്ധിത പ്രതികരണമാണ് അതിനാൽ സ്വാഭാവിക പ്രതികരണം എല്ലായ്പ്പോഴും എക്സ്പൊനെൻഷ്യലി ക്ഷയിക്കുന്നു അതിനാൽ ഇത് എഴുതിയിരിക്കുന്നതായി കാണുന്നു in A e tτ എന്ന് പറയുകഇത് ഒരു ലളിതമായ R L സർക്യൂട്ട് ആണ് അതിനാൽ τ LR ടൈം സ്ഥിരാങ്കം പറയുന്നത് ഇത് സമവാക്യം 67 ആണെന്നും നിങ്ങൾ നിർണ്ണയിക്കേണ്ട ഒരു സ്ഥിരാങ്കമാണെന്നും സ്വാഭാവിക പ്രതികരണം എല്ലായ്പ്പോഴും എക്സ്പൊനെൻഷ്യലി ക്ഷയിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞാൻ നേരിട്ട് in A e tτ ൽ എഴുതുന്നു അതിനാൽ A പിന്നീട് നിർണ്ണയിക്കാനാകും അത് കാണും ഇപ്പോൾ നിർബന്ധിത പ്രതികരണ മൂല്യം സ്വിച്ച് അടച്ചതിനുശേഷം വളരെക്കാലത്തിനുശേഷം കറന്റിന്റെ മൂല്യമാണ് അതിനാൽ എല്ലായ്പ്പോഴും അറിയുക 5 സമയ സ്ഥിരാങ്കത്തിന് ശേഷം അതായത് 5τ സ്വാഭാവിക പ്രതികരണം അനിവാര്യമായും ഇല്ലാതാവുന്നു അതിനാൽ ആ സമയത്ത് 5τ നേക്കാൾ വലുതാകുമ്പോൾ ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിത്തീരുന്നു അതിലൂടെയുള്ള വോൾട്ടേജ് 0 ആണ് അതിനർത്ഥം സ്വിച്ച് ദീർഘനേരം അടച്ചിരിക്കുമ്പോൾ ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കുന്നു അതിനാൽ സ്വാഭാവികമായും iinfinity VsR അതിനാൽ ഇത് i f ആണ് ഫോസ്ഡ് റെസ്പോൺസ് ഇത് iinfinity VsR അങ്ങനെയാണെങ്കിൽ 67 68 എന്നീ സമവാക്യങ്ങൾ i A e tτ നാച്ചുറൽ റെസ്പോൺസ് VsR ഫോസ്ഡ് റെസ്പോൺസ് അതിനാൽif ഫോസ്ഡ് റെസ്പോൺസ് isteady state ∞ VsR i0 എന്നത് ഇൻഡക്ടറിന്റെ പ്രാരംഭ കറന്റ് ആയിരിക്കുമെന്ന് അനുമാനിക്കുക ഇൻഡക്ടറിലേക്കുള്ള പ്രാരംഭ കറന്റ് ആണ് io എന്ന് ഞങ്ങൾ അനുമാനിക്കും ഇത് Vs അല്ലാത്ത ഒരു ഉറവിടത്തിൽ നിന്ന് വന്നേക്കാം അതിനാൽ ഇൻഡക്ടറിലൂടെയുള്ള കറന്റ് തൽക്ഷണം മാറാൻ കഴിയില്ലെന്ന് നമുക്കറിയാം അതായത് സ്വിച്ച് അടച്ചിരിക്കുമ്പോൾ i0 i0 I0 കാരണം ഇൻഡക്ടറിലൂടെയുള്ള കറന്റ് തൽക്ഷണം മാറാൻ കഴിയില്ല അതിനാൽ t 0 i i0 അതിനാൽ സമവാക്യം 69 ൽ t 0 ൽ നിങ്ങൾ i I 0 നൽകി അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ I0 A Vsr ൽ നിന്ന് നിങ്ങൾക്ക് A I0 VsR ലഭിക്കും ഈ സമവാക്യം 69 ൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് i I0 VsR e t τ VsR ലഭിക്കും ഇത് സമവാക്യം 72 ആണ് i VsR I0 VsR e t τ ഈ i0 ആണ് I 0 എന്ന പ്രാരംഭ മൂല്യം വീണ്ടും ഇത് e tτ മുമ്പത്തെപ്പോലെ i0 I 0 iinfinity VsR അതിനാൽ t 0 സമയത്ത് സ്വിച്ചുചെയ്യൽ സംഭവിക്കുകയാണെങ്കിൽ t മാറുകയാണെങ്കിൽ അത് i t 0 ആയിരിക്കും കാരണം t t 0 ൽ നിങ്ങൾക്ക് t 0 ൽ ഉള്ള പ്രാരംഭ മൂല്യം ലഭിക്കണം അതാണ് i അതിനാൽ i∞ അവിടെയുണ്ട് ഇവിടെ e tτ പകരം അത് e τ ആയിരിക്കും അതിനാൽ ആ നിലവിലെ i0 0 ആണെങ്കിൽ പ്രാരംഭ കറന്റ് 0 ആണെങ്കിൽ t 0 എന്നതിന് i എന്ന് എഴുതാം I0 0 ആയതിനാൽ i 0 for t 0for t 0 VsR 1 e tτ ആണെങ്കിൽ പ്രാരംഭ കറന്റ് i0 0 ആണെങ്കിൽ ഇത് സമവാക്യം 76 ആണ് അല്ലെങ്കിൽ ഈ കാര്യം ലളിതമായി എഴുതാൻ കഴിയും t 0 t 0 നു നിങ്ങൾക്ക് ഇത് ഇതുപോലെയാക്കാൻ കഴിയും i VsR1 e tτ u അതിനാൽ t 0 നായി u 0 t0 ൽ ഇത് 0 ആയി മാറും t 0 ൽ കൂടുതലാണെങ്കിൽ u 1 ആണ് അതിനാൽ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളെ സംയോജിപ്പിക്കാൻ കഴിയും അതിൽ VsR 1 e tτ u എന്ന് എഴുതാം ഇത് സമവാക്യം 77 ആണ് അതിനാൽ സമവാക്യം 77 യഥാർത്ഥത്തിൽ i0 0 ഉള്ള R L സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് പ്രതികരണം നൽകുന്നു ഇൻഡക്ടറിലുടനീളമുള്ള വോൾട്ടേജ് സമവാക്യം 6 77 ൽ നിന്ന് ലഭിക്കുംഅതിനാൽ അത് v t l d id t ആണ് അതിനാൽ നിങ്ങൾ ഇതിന്റെ ഡെറിവേറ്റീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ didt ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് VsR Lτ e t τ ലഭിക്കും എന്നാൽ LR τ അതിനാൽ τ റദ്ദാക്കപ്പെടും അതിനാൽ ഇത് vt Vs e t τ ആയിരിക്കും എന്നാൽ ഇവിടെ u ഘടിപ്പിച്ചിരിക്കുന്നു അതായത് t 0 u 0 അതിനാൽ ഇത് 0 ആയിരിക്കും t 0 u 1 ആണ് അത് vt ആയിരിക്കും Vs e tτ അതിനർത്ഥം നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ i t യുടെ സ്റ്റെപ്പ് പ്രതികരണം നൽകുന്നു അതിനാൽ ആർ എൽ സർക്യൂട്ടിനായി സ്വിച്ച് ദീർഘനേരം അടച്ചിരിക്കുമ്പോൾ അതിനാൽ കറന്റ് i infinity VsR ആണ് അതിനാൽ കറന്റ് സ്റ്റഡി സ്റ്റേറ്റ് മൂല്യം VsR ലേക്ക് പോകുന്നു സാധാരണയായി 5 τ ന് ശേഷം τ എന്നത് സ്ഥിരാങ്കമാണ് ഇത് ഏകദേശം VsR നേടും t ≥ 5τ ആകുമ്പോൾ Vs ക്രമാതീതമായി ക്ഷയിക്കുന്നു അതിനാൽ അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ക്രമേണ 0 ലേക്ക് പോകുന്നു ഇതാണ് R L സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ കറന്റ് പ്ലോട്ട് ഇതാണ് വോൾട്ടേജ് പ്ലോട്ട് അതിനാൽ ഇത് i0 0 ഉള്ള ഒരു R L സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് പ്രതികരണമാണ് പ്രാരംഭ ഇൻഡക്റ്റർ കറന്റ് ഇല്ല നന്ദി